നമുക്ക് തിരിച്ചുപോയി ഡിവൈഡ് ആൻഡ് കോൻക്യുർ നോക്കാം അതിനാൽ ഡിവൈഡ് ആൻഡ് കോൻക്യുർ എന്ന മാതൃക ഓർക്കുക ഒരു പ്രശ്നത്തെ വിഭജന ഉപപ്രശ്നങ്ങളായി വിഭജിക്കുന്നത് ഉൾപ്പെടുന്നു തുടർന്ന് ഈ ഉപപ്രശ്നങ്ങൾ ഓരോന്നും ഞങ്ങൾ പ്രത്യേകം പരിഹരിക്കുകയും പിന്നീട് അവയെ ഫലപ്രദമായി സംയോജിപ്പിച്ച് യഥാർത്ഥ രൂപത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ ഡിവൈഡ് ആൻഡ് കോൻക്യുർന്റെ രണ്ട് ഉദാഹരണങ്ങൾ ഞങ്ങൾ കണ്ടു ഡിവൈഡ് കോൻക്യുർന്റെ ഒരു മികച്ച ഉദാഹരണമാണ് മെർജ് സോർട് അവിടെ അറേ അടുക്കുന്ന പട്ടികയെ ഞങ്ങൾ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു ഞങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളും വെവ്വേറെ അടുക്കുന്നു തുടർന്ന് ഞങ്ങൾ അവയെ കാര്യക്ഷമമായി മെർജ് ചെയുന്നു അത് അടുക്കിയിട്ടുള്ള പട്ടികയാണ് ക്വിക്ക് സോർട്ടിന് വ്യത്യസ്ത തന്ത്രമുണ്ട് മെർജ് ചെയുന്ന ഘട്ടം ഒഴിവാക്കുക എന്നതാണ് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനാൽ നിങ്ങൾ യഥാർത്ഥ ലിസ്റ്റ് പുനക്രമീകരിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു പിവറ്റിനെ സംബന്ധിച്ച് താഴ്ന്നതും മുകളിലുമുള്ള വിഭജനം ഉണ്ടാകും അവ പുനക്രമീകരിച്ച ശേഷം നിങ്ങൾക്ക് താഴത്തെ പകുതിയും മുകൾ ഭാഗവും സ്വതന്ത്രമായി അടുക്കാൻ കഴിയും ഇപ്പോൾ അവ ഇതിനകം പുക്രമീകരിച്ചതിനാൽ നിങ്ങൾ അവയെ മെർജ് ചെയ്യേണ്ടതില്ല അതിനാൽ അടിസ്ഥാനപരമായി ഈ ഉപപ്രശ്നങ്ങൾ സജ്ജീകരിക്കുന്നതിന് ഒരു ചിലവും ഉപപ്രശ്നങ്ങൾ സംയോജിപ്പിക്കുന്നതിനുള്ള ചിലവും ഉൾപ്പെടുന്നു ഈ സജ്ജീകരണ ചെലവും കോമ്പിനേഷൻ ചെലവും കാര്യക്ഷമമാണെങ്കിൽ മൊത്തത്തിലുള്ള പരിഹാരം ഒരു നേരിട്ടുള്ള സമീപനത്തേക്കാൾ മികച്ച എന്തെങ്കിലും നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ ഇനിപ്പറയുന്ന സാഹചര്യം നോക്കാം മിക്കപ്പോഴും നിങ്ങൾ ഒരു ഓൺലൈൻ സ്റ്റോറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ശുപാർശ കാണാം ഉദാഹരണത്തിന് ഇതുപോലുള്ള പുസ്തകങ്ങളിൽ താൽപ്പര്യമുള്ള നിങ്ങളെപ്പോലുള്ള ഉപഭോക്താക്കളോ ഈ ഫോൺ വാങ്ങിയ ഉപഭോക്താക്കളോ ഈ ജോഡി ഹെഡ് ഫോണുകൾക്കായി തിരയുന്നു അതിനാൽ നിങ്ങളുടെ പ്രൊഫൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സേവനങ്ങൾ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നത് നിങ്ങളുടെ ഓൺലൈൻ സേവനം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമായ ചില പ്രൊഫൈൽ വിവരങ്ങൾ പരിപാലിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയും സമാന വിഭാഗത്തിലുള്ള ആളുകളെ തിരിച്ചറിയുകയും ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾക്കായി തിരയുന്നു അത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും തുടർന്ന് ഈ മൂന്ന് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ അത്തരം ഒരു ശുപാർശ സംവിധാനത്തിലെ അടിസ്ഥാന ഘട്ടം പ്രൊഫൈലുകൾ താരതമ്യം ചെയ്യുക എന്നതാണ് ഒരു വ്യക്തി എങ്ങനെ ഇഷ്ടപ്പെടുന്നു ഒരു വ്യക്തി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടാത്തത് അതിനാൽ സിനിമകളോ പുസ്തകങ്ങളോ പോലുള്ളവയിൽ നിങ്ങൾക്ക് മുൻഗണനകൾ ഉള്ളപ്പോൾ ഇതിന്റെ ഒരു ഉദാഹരണമാണ് അതിനാൽ സമയക്രമത്തിൽ നിങ്ങൾ ചില വെബ്സൈറ്റുകളിൽ പോയി നിങ്ങൾ കാണുന്ന സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ മുൻഗണനകൾ നൽകിയിട്ടുണ്ട് അതിനാൽ അഞ്ച് സിനിമകളുണ്ടെന്ന് പറയുക നമുക്ക് അവയെ A B C D E എന്ന് വിളിക്കാം അത് നിങ്ങളും മറ്റൊരാളും ഈ വെബ്സൈറ്റിൽ റാങ്ക് ചെയ്തിട്ടുണ്ട് അതിനാൽ നിങ്ങൾ പൊതുവെ വ്യത്യസ്ത റാങ്കിംഗുകളുമായി വരുന്ന രണ്ട് വ്യക്തികളാണ് അതിനാൽ ഒരുപക്ഷേ നിങ്ങൾ D ഒന്നാം റാങ്കും E അവസാന സ്ഥാനവും നിങ്ങളുടെ സുഹൃത്ത് B ഒന്നാം സ്ഥാനവും E അവസാന സ്ഥാനവും നേടി അതിനാൽ E ഏറ്റവും മോശമാണെന്ന് നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു പക്ഷേ B അല്ലെങ്കിൽ D മികച്ചതാണോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് വാസ്തവത്തിൽ നിങ്ങളുടെ സുഹൃത്ത് D വളരെ മോശമായിരുന്നുവെന്ന് കരുതുന്നു അത് യഥാർത്ഥത്തിൽ അടുത്ത Eയിലും താഴെ നിന്നും മാത്രമാണ് അതിനാൽ നിങ്ങളുടെ ആദ്യത്തേതായിരുന്ന D നിങ്ങളുടെ സുഹൃത്തുക്കളായി നാലാമതായി അതിനാൽ ഇപ്പോൾ നമുക്ക് ചെയ്യാനാകുന്നത് അത്തരം രണ്ട് സെറ്റ് റാങ്കിംഗുകൾ എടുത്ത് അവ എത്രത്തോളം സമാനമോ വ്യത്യസ്തമോ ആണെന്ന് ചോദിക്കാൻ കഴിയും എന്നതാണ് അതിനാൽ ഇത് അളക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം നിങ്ങൾ എങ്ങനെയാണ് സിനിമകളുടെ ജോഡികളെ റാങ്ക് ചെയ്യുന്നത് എന്ന് താരതമ്യം ചെയ്യുക എന്നതാണ് അതിനാൽ ഓരോ ജോഡി സിനിമകൾക്കും നിങ്ങൾ മറ്റൊന്നിനേക്കാൾ മികച്ച റാങ്കും നിങ്ങളുടെ സുഹൃത്തും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുവോ എന്ന് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം അതിനാൽ തൽക്ഷണം നിങ്ങൾ B C എന്നിവ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും സമാനമായ രീതിയിൽ റാങ്ക് ചെയ്യുന്നു മറുവശത്ത് നിങ്ങൾ D B എന്നിവ നോക്കുകയാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ Bക്ക് മുകളിൽ D റാങ്കും നിങ്ങളുടെ സുഹൃത്ത് Dക്ക് മുകളിൽ B റാങ്കും നൽകുന്നു അതിനാൽ ഒരു ഭാഗം എത്രത്തോളം ഉണ്ട് മറ്റ് എത്ര കാര്യങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളുടെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ സുഹൃത്ത് ഇഷ്ടപ്പെടുന്നതും നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ ലഭ്യമായ എല്ലാ ചോയ്സുകളിലുമുള്ള ചോയ്സുകൾ സംയോജിപ്പിക്കുന്നതുമാണ് അതിനാൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇൻവെർഷൻസ് വിളിക്കുന്നതിന്റെ സമാനത അളക്കുക എന്നതാണ് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും തമ്മിൽ എത്ര ജോടി സിനിമകൾ അല്ലെങ്കിൽ വിപരീത രീതിയിൽ റാങ്ക് ചെയ്യുന്നു അതിനാൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും എല്ലാ ജോഡി സിനിമകളും ഒരേ ക്രമത്തിൽ റാങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തം പ്രകടന ക്രമം ഒന്നുതന്നെയായിരിക്കണം അതിനാൽ പൂജ്യം ഇൻവെർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ സുഹൃത്തിന് സമാനമാണ് റാങ്കിംഗും സമാനമാണ് മറുവശത്ത് നിങ്ങൾക്ക് n സിനിമകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് n ചോയ്സ് ചെയ്യാനും ജോഡികളായി തിരഞ്ഞെടുക്കാനും കഴിയും അതിനാൽ വ്യത്യസ്ത ജോഡി സിനിമകളുടെ എണ്ണം n തിരഞ്ഞെടുക്കുക 2 ആണ് n എന്നത് n മൈനസ് 1 ബൈ 2 അതിനാൽ സാധ്യമായ എല്ലാ സിനിമകളും നിങ്ങളുടെ സുഹൃത്തിനോട് വിയോജിക്കുന്നുവെങ്കിൽ ഇൻവെർഷൻങ്ങളുടെ എണ്ണം n n മൈനസ് n ആയി 2 ആകും ഒരു ക്രമം n സമചതുരമാണ് അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒരു അളവുകോലായി ഉപയോഗിക്കാം എത്ര ജോഡികൾ ക്രമരഹിതമാണ് എത്രമാത്രം സമാനമോ വ്യത്യസ്തമോ ആണെന്നതിന്റെ അളവുകോലായി രണ്ട് സെറ്റ് റാങ്കിംഗുകൾ ഏത് ഉപഭോക്താക്കളെ താരതമ്യം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഈ ശുപാർശയിൽ ഇത് ഉപയോഗിക്കാം ഒരു ശുപാർശ ചെയ്യുന്നതിൽ അതിനാൽ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ഒരാളുമായി അടുപ്പമുള്ള ഉപഭോക്താക്കളെ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കൂ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ശുപാർശ ചെയ്യുന്നതിൽ അർത്ഥമില്ല കാരണം നിങ്ങൾ അത് വളരെ വ്യത്യസ്തമായ അഭിരുചിയുള്ള ഒരാളുമായി താരതമ്യം ചെയ്യുന്നു അതിനാൽ നമുക്ക് ഇത് മറ്റൊരു രീതിയിൽ രൂപപ്പെടുത്താം അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റാങ്കിംഗ് എടുക്കുന്നു അതാണ് നൽകിയിരിക്കുന്ന ഓർഡർ എന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ സിനിമകൾക്കുള്ള നിശ്ചിത ക്രമം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു അടിസ്ഥാന റാങ്കിംഗ് 1 2 3 4 വരെ n എന്ന് ഞങ്ങൾ വിളിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് റാങ്കിംഗ് ഞങ്ങൾ 1 എന്ന് വിളിക്കുന്നത് 5 ആയിരിക്കാം ഞങ്ങൾ 2 എന്ന് വിളിക്കുന്നത് 3 ആയിരിക്കാം അതിനാൽ i റാങ്കോടെ ഞങ്ങൾ റാങ്കുചെയ്യുന്ന എല്ലാം റാങ്കുചെയ്യപ്പെടും അവിടെ ഞങ്ങളുടെ സുഹുർത്തകളുടെ വ്യത്യസ്ത റാങ്ക് j തീർച്ചയായും ഓരോ റാങ്കും മറ്റെവിടെയെങ്കിലും അവിടെ പ്രത്യക്ഷപ്പെടും അതിനാൽ സുഹുർത്തകളുടെ റാങ്കിംഗ് 1 മുതൽ n വരെ ഒരു ക്രമമാറ്റം ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ j ന് മുമ്പായി റാങ്ക് ചെയ്യുകയാണെങ്കിൽ അതായത് j നേക്കാൾ ചെറിയ സംഖ്യയാണ് ഒരു ഇൻവെർഷൻ അതിനാൽ എന്റെ ലിസ്റ്റിലെ ഒരു ജോഡി i കോമ j ആയിരിക്കും ഇൻവെർഷൻ അതിനാൽ എന്റെ ലിസ്റ്റ് ഞാൻ j യുടെ അപ്ഡേറ്റാണ് പക്ഷേ എന്റെ ചങ്ങാതിമാരുടെ പട്ടികയിൽ ആഡ് പെർമുറ്റേഷനിൽ i ന് മുമ്പ് j പ്രത്യക്ഷപ്പെടുന്നു നമുക്ക് ഇത് കുറച്ചുകൂടി വ്യക്തമായി നോക്കാം അതിനാൽ ഇത് ഞങ്ങളുടെ യഥാർത്ഥ ഉദാഹരണമാണെന്ന് കരുതുക അങ്ങനെ A B C D E എന്നീ 5 സിനിമകൾ ഉണ്ടായിരുന്നു ഞാൻ അവയെ റാങ്കുചെയ്തു നിങ്ങൾ അവയെ റാങ്ക് ചെയ്യുന്നു D B C AE പിന്നെ ഞാൻ പറയും D 1 B 2 C 3 A 4 E 5 അതിനാൽ ഇതാണ് എന്റെ യഥാർത്ഥ ലിസ്റ്റ് 1 മുതൽ 5 ഇപ്പോൾ കാരണം എനിക്ക് അവരുടെ സിനിമകളും കാര്യങ്ങളും തമ്മിൽ ഈ കത്തിടപാടുകൾ ഉണ്ട് റാങ്കിംഗുകൾ അപ്പോൾ എനിക്ക് അറിയാം D എന്നത് ഒരു 2 ആണെന്ന് അതിനാൽ B 2 A 4 C 3 D 1 E 5 എന്നിവയാണ് അതിനാൽ ഈ മുൻഗണനകളുടെ പട്ടികയിൽ നിന്ന് എന്റെ റാങ്കിംഗിന്റെ പുനക്രമീകരണമായി എഴുതാൻ എനിക്ക് ഇത് വായിക്കാനാകും ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇതുപോലുള്ള ജോഡികൾ 2 ഉം 1 ഉം എപ്പോൾ ഉണ്ടെന്ന് 1 യഥാർത്ഥ പട്ടികയിൽ വ്യക്തമാണ് അതിനാൽ ഇത് ഒരു വിപരീതമാണ് അതിനാൽ 2 1 എന്നത് വിപരീതമാണ് അതുപോലെ 4 1 വിപരീതമാണ് അതിനാൽ ഇത് 3 1 ആണ് അതിനാൽ ഈ മൂന്ന് വിപരീതങ്ങൾ നമുക്കുണ്ട് നമ്മൾ അവയെ 1 2 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും 3 ൽ 3 1 കാരണം ഇവ ജോഡികളാണ് അതിനാൽ ഇത് ക്രമത്തിലല്ല ഈ ജോഡി സിനിമകൾ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തിനും എതിർ സ്ഥാനത്താണ് ഈ പ്രത്യേക ഉദാഹരണത്തിലെ അവസാന വിപരീതം 3 ഉം 4 ഉം ആണ് അതിനാൽ 3 ഉം 4 ഉം വിപരീത ക്രമത്തിൽ ദൃശ്യമാകുന്നു അതിനാൽ നിങ്ങൾക്ക് മറ്റെല്ലാ ജോഡികളും പരിശോധിക്കാം ഉദാഹരണത്തിന് 4 5 അല്ലെങ്കിൽ 2 3 അല്ലെങ്കിൽ 2 4 ഓർഡർ ഉണ്ടോ എന്ന് അതിനാൽ നിങ്ങളുടെ റാങ്കിംഗും നിങ്ങളുടെ സുഹുർത്തകളുടെ റാങ്കിംഗും തമ്മിൽ ഈ പ്രത്യേക പട്ടികയിൽ നാല് വിപരീതങ്ങളുണ്ട് കൂടാതെ ക്രമമാറ്റങ്ങൾക്ക് നൽകിയ ഈ വിപരീതങ്ങളുടെ എണ്ണം കണക്കാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം അത് ഞങ്ങൾ എങ്ങനെ കണക്കുകൂട്ടുന്നു എന്നതിനെ ഭൌതികമായി ബാധിക്കില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുക എന്നതാണ് അതിനാൽ മുകളിലുള്ള ശരിയായ ഓർഡറായി ആരംഭിക്കുന്നതിന് നിങ്ങൾ റാങ്കിംഗുകൾ എടുക്കുക അതിനാൽ നിങ്ങൾക്ക് 1 മുതൽ 5 വരെയുള്ള ഒരു കൂട്ടം വേർട്ടക്സുകൾ ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സുഹുർത്തകളുടെ റാങ്കിംഗിന്റെ ക്രമത്തിൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന 1 മുതൽ 5 വരെയുള്ള വേർട്ടക്സുകളുടെ ക്രമം മാറ്റേണ്ടതുണ്ട് എന്നിട്ട് നിങ്ങൾ 1 മുതൽ 1 2 മുതൽ 2 വരെയും മറ്റും കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ നിങ്ങൾ ഗ്രാഫിൽ നിർമ്മിക്കും അത് നിങ്ങൾക്ക് മുകളിൽ 5 ഉം താഴെ 5 ഉം ഉള്ളതുപോലെ നിങ്ങൾക്ക് 5 എഡ്ജുകളുണ്ട് നിങ്ങൾക്ക് n ഉം n ഉം ഉണ്ടെങ്കിൽ n എഡ്ജുകൾ ഉണ്ട് ഇപ്പോൾ ഈ ഗ്രാഫിൽ ഓരോ തവണയും ഒരു രേഖ കടന്നുപോകുമ്പോൾ ഇത് പൊരുത്തക്കേടാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ 2 ന് 1 ന് മുന്നേ പോയി അതുപോലെ 4 ന് 3 ന് മുകളിൽ പോയി അതിനാൽ ഈ വരികൾക്കിടയിൽ 4 ക്രോസിംഗ് ഉണ്ട് അത് ഈ ഉദാഹരണത്തിലെ നാല് വിപരീതങ്ങളുമായി ശരിക്കും യോജിക്കുന്നു അതിനാൽ ഇപ്പോൾ പരിശോധിക്കാൻ വളരെ ലളിതമായ ഒരു ബ്രൂട്ട ഫോഴ്സ് മാർഗമുണ്ട് കാരണം എല്ലാ വിപരീതങ്ങളും ഒരു ജോഡി ആണെന്ന് ഞങ്ങൾക്കറിയാം അതായത് j i സുഹൃത്തുക്കളുടെ പട്ടികയ്ക്ക് മുമ്പ് ദൃശ്യമാകുന്നു അതിനാൽ നമുക്ക് അത് പരിശോധിക്കാൻ കഴിയും i ൽ നിന്ന് വ്യത്യസ്തമായ എല്ലാ i j എന്നിവയും പരിശോധിക്കാം i ഉം j ഉം ഒരു വിപരീതമാണോ ഇത് ഞങ്ങൾക്ക് ഒരു ബ്രൂട്ട ഫോഴ്സ് ഓർഡർ n സ്ക്വയേർഡ് അൽഗോരിതം നൽകും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ എല്ലാ വിപരീതങ്ങളും എണ്ണുന്നു സാധ്യമായ എല്ലാ ജോഡികളെയും ഇത് പരിശോധിക്കുന്നു ഇത് ഒരു വിപരീതമാണെങ്കിൽ അതെ എന്ന് പറയുന്നു ഇത് ഒരു വിപരീതമല്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയുന്നു തുടർന്ന് നിങ്ങൾ എത്ര വിപരീതങ്ങൾ പരിഹരിക്കുന്നുവെന്ന് കണക്കാക്കുന്നു കൂടാതെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ n പൂർണ്ണമായി n മൈനസ് 1 ബൈ 2 വിപരീതമായി സജ്ജമാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കണ്ടു അതിനാൽ ഇത് എല്ലാ വിപരീതവും അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പരിശോധിക്കുക അതിനാൽ ഞങ്ങളുടെ മുഴുവൻ കാര്യക്ഷമതയും കൂടുതൽ കാര്യക്ഷമമായ അൽഗോരിതം നൽകുക എന്നതാണ് അതിനാൽ ഞങ്ങൾ ഈ ഡിവൈഡ് ആൻഡ് കോൻക്യുർ മാതൃകയിലേക്ക് നീങ്ങും അതിനാൽ നിങ്ങളുടെ സുഹൃത്തിന്റെ പെർമ്യൂറ്റേഷൻ ഞങ്ങളുടെ പെർമ്യൂറ്റേഷൻ എപ്പോഴും 1 മുതൽ n വരെയാണെന്ന് കരുതുക അതിനാൽ അത് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ആദ്യത്തേത് രസകരമാകുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ പെർമ്യൂറ്റേഷൻ അതിനാൽ സുഹുർത്തകളുടെ പെർമ്യൂറ്റേഷൻ 1 മുതൽ n വരെ ക്രമരഹിതമാണ് നമുക്ക് അതിനെ i 1 മുതൽ i n എന്ന് വിളിക്കാം അതിനാൽ ഇപ്പോൾ മെർജ് സോർട്ന് സമാനമായ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യും അതിനാൽ നിങ്ങൾ ഈ ലിസ്റ്റ് i 1 മുതൽ i n വരെ എടുത്ത് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കും അതിനാൽ ഞങ്ങൾക്ക് i 1 മുതൽ i n 2 വരെ ഇടത് വശവും i n 2 1 മുതൽ n വരെ വലതുമാണ് അതിനാൽ ഡിവൈഡ് ആൻഡ് കോൻക്യുർ എന്നത് വളരെ ലളിതമായ ഒരു തന്ത്രമാണ് നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയൂ നിങ്ങൾക്ക് ഇത് പരിഹരിക്കാനാകും അതിനുശേഷം നിങ്ങൾക്ക് സംയോജിപ്പിക്കാൻ കഴിയും അതിനാൽ ഇതാണ് അടിസ്ഥാന മാതൃക അതിനാൽ നിങ്ങൾ വിഭജിക്കുകയും വിഭജിച്ച ഭാഗങ്ങൾ പരിഹരിക്കുകയും സംയോജിപ്പിക്കുകയും വേണം അതിനാൽ ഇടത്തോട്ടും വലത്തോട്ടും വിപരീതങ്ങൾ കണക്കാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് അനുമാനിക്കും ഇപ്പോൾ കണക്കാക്കാൻ അവശേഷിക്കുന്നത് അതിരുകൾ മറികടക്കുന്ന വിപരീതങ്ങളാണ് അതിനാൽ j i ജോഡിയിൽ ഇതുപോലെയാണോ ഞാൻ ഇടത് മാത്രം എണ്ണുമ്പോൾ ഇത് കണക്കാക്കില്ല കാരണം i ഇടതുവശത്തല്ല അത് വലതുഭാഗത്ത് മാത്രം കണക്കാക്കില്ല കാരണം j വലതുവശത്തല്ല അതിനാൽ i എന്നത് സംഖ്യകളേക്കാൾ j നേക്കാൾ കുറവാണെങ്കിൽ ഒരു വിപരീതമുണ്ടാകും പക്ഷേ j ഇടതുവശത്ത് ദൃശ്യമാകുന്നു ഞാൻ വലതുഭാഗത്ത് ദൃശ്യമാകുന്നു അതിനാൽ ഞങ്ങൾ ആവർത്തിച്ച് പരിഹരിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അതിനാൽ ഇത് അടിസ്ഥാനപരമായി കോമ്പിനേഷനുകളുടെ ഘട്ടമാണ് വലതുവശത്തുള്ള എത്ര മൂലകങ്ങൾ ഇടത് മൂലകങ്ങളേക്കാൾ വലുതാണ് ഇടതുവശത്തുള്ള എന്തും വലതുവശത്തുള്ളതിനേക്കാൾ ചെറുതാണെങ്കിൽ അത് ഒരു വിപരീതമല്ല കാരണം മൊത്തത്തിലുള്ള പട്ടികയിൽ ഇത് ഇതിനകം ശരിയായ ക്രമത്തിലാണ് പക്ഷേ വലതുവശത്തുള്ളത് ഇടതുവശത്തുള്ളതിനേക്കാൾ വലുതാണ് അപ്പോൾ അത് ഒരു വിപരീതമാണ് അത്തരം എല്ലാ ജോഡികളും നമ്മൾ കണക്കാക്കണം അതിനാൽ ഇത് പരിഹരിക്കുന്നതിന് ഞങ്ങൾ എണ്ണുന്നതിനേക്കാൾ അൽപ്പം ശക്തമാക്കുകയോ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള നടപടിക്രമം നടത്തുകയോ ചെയ്യും അതിനാൽ രണ്ട് ഭാഗങ്ങളിലും പ്രവൃത്തികൾ മാത്രമല്ല കണക്കാക്കുന്നത് എന്ന് ഞങ്ങൾ അനുമാനിക്കും ഞങ്ങൾ എണ്ണിക്കൊണ്ടിരുന്ന അവരെ നന്നായി അടുക്കി അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നം രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച് ഞങ്ങൾ തിരിച്ചുവരുന്നു അതിനാൽ ഇത് എന്റെ L ഇതാണ് എന്റെ R ഞാൻ ഇപ്പോൾ L അടുക്കിയിരിക്കുന്ന R അടുക്കിയിരിക്കുന്നു എനിക്ക് ഒരു കൌണ്ടർ ഉണ്ട് അതിനാൽ എനിക്ക് ഒരു L ഉം ഒരു R ഉം ഉണ്ട് ഇപ്പോൾ ഇവ തരംതിരിക്കപ്പെട്ട ഘടകങ്ങൾ എനിക്ക് ഒരുതരം മെർജ് ചെയ്യാൻ കഴിയും എന്നാണ് അതിനാൽ എനിക്ക് മെർജ്ന്റെ ഒരു പതിപ്പ് ഉപയോഗിക്കാം അതിനാൽ എണ്ണാൻ ഞങ്ങളെ അനുവദിക്കുന്ന മെർജ്ന്റെ ഒരു പതിപ്പ് ഞങ്ങൾ വിവരിക്കും അതിനാൽ ഇത് മറ്റ് കണക്കുകളായി നൽകുന്നു തുടർന്ന് ഞങ്ങൾക്ക് മൂന്ന് എണ്ണങ്ങളുണ്ട് ഇടത് എണ്ണത്തിന്റെ ശരിയായ എണ്ണവും മെർജ് ലൂടെയുള്ള എണ്ണവും അതിനാൽ നിങ്ങൾക്ക് ലയിപ്പിക്കാൻ താൽപ്പര്യമുള്ളത് യഥാർത്ഥത്തിൽ എത്ര മൂലകങ്ങളേക്കാൾ വലത് അല്ലെങ്കിൽ എത്ര മൂലകങ്ങൾ ഉണ്ടെന്ന് പരിശോധിക്കുക എന്നതാണ് ഇടത് ഭാഗത്ത് അതിനാൽ ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്യും അപ്പോൾ മെർജ് ന്റെയും എണ്ണലിന്റെയും തത്വം എന്താണ് അതിനാൽ L R എന്നിവയിലുടനീളമുള്ള ഒരു വിപരീതത്തിൽ R എന്ന മൂലകം അടങ്ങിയിട്ടുണ്ടെന്ന് ഓർക്കുക അതിനാൽ ഞങ്ങൾക്ക് R ലെ ഒരു മൂലകവും L ലെ ഒരു ഘടകവുമുണ്ട് അതായത് ഈ സംഖ്യ ഈ സംഖ്യയേക്കാൾ ചെറുതാണ് അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ചിലത് ഉണ്ട് ചിലത് ഇവിടെയുണ്ട് അതായത് i j നേക്കാൾ ചെറുതാണ് അതിനാൽ ഒരു മെർജ് നടപടിക്രമത്തിൽ സംഭവിക്കുന്നത് ഒരു ഘട്ടത്തിലാണ് അതിനാൽ ഞങ്ങൾ ലയിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇവയിൽ ചെറിയവ എടുത്ത് പുറത്തെടുക്കുന്നു അതിനാൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഒരു മൂലകം പുറത്തെടുത്തിരുന്നെങ്കിൽ ഇതിനർത്ഥം ഈ നിലവിലെ പോയിന്ററിൽ ഞാൻ ഇത് വരെ ലയിപ്പിച്ചിട്ടുണ്ട് അതിനാൽ എന്റെ ലിസ്റ്റിൽ ഇടത് വലത് എന്നിങ്ങനെ രണ്ട് പോയിന്ററുകൾ ഉണ്ട് ലയിപ്പിച്ചതുവരെ തുടർന്ന ലിസ്റ്റ് അടുക്കിയിരിക്കുന്നു ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വലത് വശത്തെ മൂലകം തിരഞ്ഞെടുക്കുന്നു കാരണം അത് ചെറുതാണ് അതിനാൽ അതിനെക്കാൾ ചെറുതാണെങ്കിൽ ഞാൻ ഇതുവരെ നോക്കാത്തതിനേക്കാൾ ചെറുതാണ് അതുകൊണ്ടാണ് കാരണം ഞാൻ L ൽ നോക്കുന്ന ആദ്യ മൂലകത്തേക്കാൾ ചെറുതാണ് അതിനാൽ L ലെ മറ്റെല്ലാം ചെറുതാണ് കാരണം മറ്റെല്ലാം L ൽ അടുക്കിയിരിക്കുന്നു അതിനാൽ L ൽ അവശേഷിക്കുന്ന ഈ മുഴുവൻ വിഭാഗവും അതിൽ നിന്ന് പുറത്തെടുക്കുന്ന നിലവിലെ മൂലകത്തേക്കാൾ ചെറു മൂലകങ്ങളുമായി പൊരുത്തപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ R ലെ ഈ ഘടകം മെർജ് പ്രക്രിയയിൽ വേർതിരിച്ചെടുക്കുമ്പോൾ പോയിന്റിൽ L ലെ മൂലകങ്ങൾ ഉള്ളതുപോലെ നിരവധി വിപരീതഫലങ്ങൾ സംഭാവന ചെയ്യുന്നു അതിനാൽ ഞാൻ R ൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഒരു ഘടകം ചേർക്കുമ്പോഴെല്ലാം അത് നിലവിൽ L ലെ എല്ലാ ഘടകങ്ങളിലേക്കും വിപരീതമാണ് അതിനാൽ L ന്റെ നിലവിലെ വലുപ്പം വിപരീതങ്ങളുടെ എണ്ണത്തിലേക്ക് ഞാൻ ചേർക്കണം അതിനാൽ ഇത് മെർജ് എണ്ണുകയും ചെയ്യുന്നു ഞങ്ങൾ മെർജ് ചെയ്യുമ്പോൾ ഇടത് നിന്ന് വലിക്കുമ്പോൾ ഓരോ തവണയും വിപരീതമില്ല ഓരോ തവണയും വലതുവശത്തേക്ക് വലിക്കുമ്പോഴും ഇടതുവശത്ത് എത്ര ഘടകങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ വിപരീത ഭാഗത്ത് ചേർക്കേണ്ടതുണ്ട് അതിനാൽ മെർജ് നും എണ്ണലിനുമുള്ള ഒരു മെർജ് നടപടിക്രമം ഇതാ ഇത് അടിസ്ഥാന മെർജ് സെറ്റിലെ മെർജ് നടപടിക്രമത്തിന് സമാനമാണ് അതിനാൽ ലയിപ്പിക്കാൻ ഞങ്ങൾക്ക് A B എന്നീ രണ്ട് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു രണ്ടും അടുക്കിയിരിക്കുന്നു A ന് m ഘടകങ്ങളും B ന് n ഘടകങ്ങളുമുണ്ട് കൂടാതെ m പ്ലസ് n ഘടകം ഉള്ള ഒരു ഔട്ട്പുട്ട് ലിസ്റ്റ് C നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഓരോ ലിസ്റ്റിലും ഞങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് ഞങ്ങളോട് പറയാൻ പോയിന്ററുകളിൽ ഒപ്പിടാൻ തുടങ്ങുന്നു ഞങ്ങൾ വെറും 0 ആയി സജ്ജമാക്കി ഇപ്പോൾ വിപരീതങ്ങളുടെ എണ്ണം ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് അതിനാൽ 0 എന്ന ഇനീഷ്യൽ ചെയ്ത ഒരു വേരിയബിൾ ഞങ്ങൾ സൂക്ഷിക്കുന്നു ഇതുവരെ കണ്ട മൊത്തം വിപരീതങ്ങളുടെ എണ്ണം അതിനാൽ C ലേക്ക് നീങ്ങാൻ എന്തെങ്കിലും ഉണ്ട് ഞങ്ങൾ എന്തെങ്കിലും നീക്കുന്നു അതിനാൽ രണ്ട് കേസുകളുണ്ട് A ൽ നിന്ന് നീങ്ങുന്ന ആദ്യ കേസുകൾ അതിനാൽ എനിക്ക് B ശൂന്യമാണ് j എന്നത് n ന് തുല്യമാണ് A A i എന്നത് B j ന് തുല്യമായതിനേക്കാൾ ചെറുതാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സാധാരണ ചിന്തിക്കുന്നത് A യുടെ ith ഘടകം C k യിലേക്ക് പകർത്തുന്നു തുടർന്ന് ഞങ്ങൾ രണ്ടും വീണ്ടും n k വർദ്ധിപ്പിക്കുന്നു മറ്റ് സന്ദർഭങ്ങളിൽ ഒന്നുകിൽ A ഒരു ശൂന്യമായിരിക്കുമ്പോൾ i എന്നത് m അല്ലെങ്കിൽ B j എന്നതിന് തുല്യമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു വിപരീതമുണ്ടാകാം അതിനാൽ നമുക്ക് എത്ര വിപരീതങ്ങളുണ്ട് നമുക്ക് കൃത്യമായി m മൈനസ് i വിപരീതങ്ങളുണ്ട് അതുപോലെ തന്നെ i എന്നതിനേക്കാൾ നിരവധി വിപരീതങ്ങളുണ്ട് നിലവിൽ A ലെ മൂലകങ്ങളുടെ അത്രയും വിപരീതങ്ങളുണ്ട് അതായത് n മൈനസ് 1 ഇപ്പോൾ B യിൽ നിന്ന് നമ്മൾ പകർത്തുന്ന നിർദ്ദിഷ്ട സാഹചര്യത്തിൽ A ശൂന്യമായതിനാൽ നമുക്ക് i എന്നത് m ന് തുല്യമാണെന്ന് ശ്രദ്ധിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ B 0 ആകും അതിനാൽ അവ ഒരു വിപരീതമാകരുത് അവർ B C എന്നിവ തനിപ്പകർപ്പാക്കുകയാണെങ്കിൽ കാരണം A തീർന്നുപോയി അതിനാൽ i എന്ന 0 മൈനസ് ആയിരിക്കുമ്പോഴും അത് ശ്രദ്ധിക്കപ്പെടുന്നു അതിനാൽ ഞങ്ങൾ എണ്ണം പുതുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതിൽ ചേർക്കുന്നില്ലെന്ന് കരുതുന്നു അതിനാൽ ഞങ്ങൾ Bയിൽ നിന്ന് എന്തെങ്കിലും നീക്കുമ്പോൾ എണ്ണത്തെ വർദ്ധിപ്പിക്കാൻ A ഇപ്പോഴും ശൂന്യമല്ലാത്തപ്പോൾ ഒരു നോൺട്രിവിയൽ മെർജ് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു കൌണ്ടിലെ മൂലകങ്ങൾ അതേപടി നിലനിൽക്കുന്നതിനാൽ ഞങ്ങൾ നീങ്ങുന്നു അതിനാൽ ഈ മെർജ് പ്രക്രിയയുടെ അവസാനം ഞങ്ങൾ കണ്ട ഈ വിപരീത സംഖ്യകളും മെർജ് പട്ടികയും ഞങ്ങൾ നൽകുന്നു അതിനാൽ ഇപ്പോൾ ഇനിപ്പറയുന്ന രീതിയിൽ എണ്ണുന്നതിനൊപ്പം ലയിപ്പിക്കൽ തരത്തിലേക്ക് ഞങ്ങൾ നടപടിക്രമങ്ങൾ സംയോജിപ്പിക്കുകയോ ലയിപ്പിക്കുകയോ ചെയ്യുന്നു പതിവുപോലെ ഞങ്ങൾ ഇടത് ഇന്ഡക്സിൽ നിന്ന് ചില വലത് ഇന്ഡക്സിൽലേക്ക് പൊതുവായി ഒരു ശ്രേണി അടുക്കും കാരണം ഞങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളും വ്യത്യസ്ത സമയങ്ങളും അടുക്കും അതിനാൽ നിലവിലെ സെഗ്മെന്റ് നീളം 1 ആയി തരംതിരിക്കണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ ഒരു പുതിയത് സജ്ജീകരിച്ചു അടുക്കിയിരിക്കുന്ന വിഭാഗം നമ്മൾ കാണുന്ന മൂല്യം മാത്രമാണ് വിപരീതവുമില്ല കാരണം ഇത് ഒന്ന് മാത്രമാണ് മൂല്യം മറുവശത്ത് ഇത് 1 നേക്കാൾ വലുതാണെങ്കിൽ ഞങ്ങൾ മിഡ് പോയിന്റ് കണക്കുകൂട്ടുന്നു ഞങ്ങൾ ഈ രണ്ട് ആവർത്തന കോളുകൾ ചെയ്യുന്നു അവ ഓരോന്നും യഥാക്രമം ഇടത്തും വലത്തും കൌണ്ട് നൽകും തുടർന്ന് ഞങ്ങൾ വിളിക്കുന്നു അല്ലെങ്കിൽ ലയിപ്പിക്കൽ നടപടിക്രമവും ലയന വിഭാഗത്തിൽ നിന്ന് ഒരു കണക്കും നേടുക അതിനാൽ ഞങ്ങളുടെ ആകെ വിപരീതങ്ങളുടെ എണ്ണം ഇടത്തുനിന്നുള്ള എണ്ണവും ലയനത്തിൽ നിന്നുള്ള വലത് എണ്ണവും ആണ് പുതിയ ശ്രേണിയാണ് ലയനത്തിലൂടെയുള്ള തിരിച്ചുവരവ് അതിനാൽ ഇത് ലയന തരംതിരിവിന്റെ വളരെ ലളിതമായ വിപുലീകരണമാണ് ഇത് ഒരു ശുപാർശ സംവിധാനത്തിന് ഉപയോഗപ്രദമായ വിപരീതങ്ങൾ കണക്കാക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നു അതിനാൽ ഘടനയുടെ വിഭവങ്ങൾ മെർജ് സോർട്ന് സമാനമാണെന്നും വിശകലനം സമാനമാണെന്നും ഉള്ളതിനാൽ നടപടിക്രമങ്ങളിൽ എടുത്ത സമയത്തിനുള്ള ഈ ആവർത്തനം ഞങ്ങൾക്കുണ്ട് അതിനാൽ 1 ന്റെ T എന്നത് 1 ഉം T ന്റെ T ഉം 2 തവണ T n ഉം 2 n ഉം ആണ് അതിനാൽ സോർട്ടിനെ ലയിപ്പിക്കുക കാരണം സോർട്ടിനെ എണ്ണവുമായി ലയിപ്പിക്കാൻ ഒരു ലീനിയർ സമയം മാത്രമേ എടുക്കൂ അതിനാൽ നിങ്ങൾ എണ്ണത്തിൽ ലയിപ്പിക്കുന്നത് എണ്ണാതെ ലയിപ്പിക്കുന്നതിന് തുല്യമായ സമയമെടുക്കും അതിനാൽ ഞങ്ങൾ ഇത് പരിഹരിക്കുകയും ഞങ്ങൾക്ക് n log n ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് കണക്കുകൂട്ടൽ നടത്തുമ്പോഴാണ് സാധ്യമായ എല്ലാ ജോഡികളും നോക്കുകയും അല്ലാത്തത് ഒരു വിപരീതമാണോ എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിനാൽ ഉത്തരം ലഭിക്കാൻ അവർ യഥാർത്ഥത്തിൽ വിപരീതമായി കണക്കാക്കി ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു n log n ചെയ്യുന്നു അത് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിപരീത സംഖ്യയേക്കാൾ വളരെ ചെറുതാണ് അതിനാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ വിപരീതങ്ങളുടെ എണ്ണം കണക്കാക്കുന്നു അല്ലെങ്കിൽ കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഓരോന്നായി സ്വമേധയാ എണ്ണാതെ എത്ര വിപരീതങ്ങളുണ്ടെന്ന് കണക്കാക്കുന്നു കാരണം അവ ഒരു n സമചതുര വിപരീതങ്ങളാകാം പക്ഷേ n ചതുരാകൃതിയിലുള്ള വിപരീതങ്ങൾ ഉപയോഗിക്കുക n log n ടൈമിൽ നമുക്ക് അത് കണ്ടെത്താനാകും അതിനാൽ ഓരോ ഘട്ടവും ഞങ്ങൾ സ്വമേധയാ എണ്ണുന്നില്ല മറിച്ച് ഒരു ആവർത്തന കണക്കുകൂട്ടലിലൂടെയാണ് ഞങ്ങൾക്ക് ഇത് ലഭിക്കുന്നത്